കോണിക് സെക്ഷൻസ് - XI എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 ലെക്ചർ 19 ലാണ് നിൽക്കുന്നത് ഈ മൊഡ്യൂളിൽ നമ്മൾ കോണിക് വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ആ കോണിക് വിഭാഗങ്ങളിൽ അവസാന ക്ലാസിൽ നമ്മൾ സൈക്ലോയിഡ് കർവിൽ നിർത്തി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പൈറലുകൾ ഇൻവലിയൂട്ടുകൾ എന്നിവ നോക്കാൻ പോകുന്നു സ്പൈറലുകൾ എവിടെയാണ് കാണുന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം ഉദാഹരണത്തിന് സമന്വയ ചലനത്തിൽ ഓടുന്ന വാച്ച് പോലുള്ള ഏതെങ്കിലും ഗിയർ സംവിധാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്പ്രിംഗ് ടോർക്ക് പുനസ്ഥാപിക്കൽ സംവിധാനങ്ങളും ഒരു സ്പ്രിംഗ് പോലെ സ്പൈറലുകളിലേക്ക് വൌണ്ട് ചെയ്യ പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു വാതിൽ ഡാംപറിൽ സ്പ്രിംഗ് അടങ്ങിയിരിക്കുന്നു ഇത് സ്പൈറലായി വൌണ്ട് ചെയ്യുകയും ശക്തി പ്രയോഗിക്കുകയും ചെയ്താൽ അത് വലിച്ചുനീട്ടപ്പെടും അത് അടയ്ക്കാനോ ഒരുപക്ഷേ ടോർക്ക് പുനസ്ഥാപിക്കാനോ ആഗ്രഹിക്കുമ്പോൾ അത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു സ്പൈറൽ സ്പ്രിംഗ് എന്ന പദം സാധാരണമായി നമ്മൾ യന്ത്ര ഘടകങ്ങളിൽ കാണുന്നു അതിനാൽ ഷീറ്റുകളിൽ അത്തരം സ്പൈറലുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് ആദ്യത്തെ ചോദ്യം ഉദാഹരണത്തിന് നമുക്ക് ഒരു പ്രശ്നം തിരഞ്ഞെടുക്കാം 120 മില്ലീമീറ്റർ നീളമുള്ള ലിങ്ക് OA ഏകീകൃത കോണീയ വേഗതയിൽ O നെ ചുറ്റുന്നു അതിനാൽ സ്പൈറലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ലിങ്ക് എന്നത് ഒരു മെഷീൻ ഡിസൈൻ തരത്തിലുള്ള പ്രോബ്ലം ആണ് ഒരു പോയിന്റ് സ്ഥിരമായ കോണീയ വേഗതയിൽ കറങ്ങുകയാണ് പോയിന്റ് പി 'P' തുടക്കത്തിൽ ഒ ഇൽ ആയിരിക്കും ഇത് OA നൊപ്പം ഒരു ഏകീകൃത നിരക്കിൽ നീങ്ങുകയും A ൽ എത്തുകയും ചെയ്യുന്നു ലിങ്കിന്റെ ഒരു ഭ്രമണ സമയത്ത് ഉണ്ടാകുന്ന രൂപം ഒരു സ്പൈറൽ ആയിരിക്കും ഇത്തരത്തിലുള്ള ഡാറ്റ ഉപയോഗിച്ച് പോയിന്റ് പി ഇൽ നിന്നും ഒരു സ്പൈറൽ നിർമ്മിക്കാം ഇത് ഏകീകൃത കോണീയ വേഗതയിൽ സഞ്ചരിക്കുകയും ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നമുക്ക് ഒരു പോയിന്റ് പി തിരഞ്ഞെടുക്കാം ഈ പോയിന്റ് പി തുടക്കത്തിൽ മധ്യത്തിലായിരിക്കും എന്നാൽ ഇത് സ്ഥിരമായ കോണീയ വേഗതയുമായി നീങ്ങുമ്പോൾ അത് വികിരണമായി പുറത്തേക്ക് നീങ്ങുന്നു തുടർന്ന് അത് സ്പൈറൽ ആഗൃതിയിൽ ഒരു രൂപം ട്രാക്കുചെയ്യുന്നു മറ്റൊരു പോയിന്റ് ഇവിടെയുണ്ട് ഇത് ഏകീകൃത കോണീയ വേഗതയിൽ പോകുന്നു അത് അകത്തേക്ക് പോകുമ്പോൾ ആരം തുടർച്ചയായി കുറയുന്നു അവസാനമായി അത് O ൽ എത്തുന്നു അത്തരം രൂപങ്ങളെ നമ്മൾ സ്പൈറലുകൾ എന്ന് വിളിക്കുന്നു അത്തരം സ്പൈറലുകൾ എങ്ങനെ നിർമ്മിക്കാം അതിനാൽ നമുക്ക് ചിത്രം നോക്കാം സ്പൈറൽ നിർമാണത്തിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങൾ ഇവയൊക്കെയാണ് ഒന്നാമതായി O കേന്ദ്രവും OA ആരം ഉപയോഗിച്ച് നമ്മൾ ഒരു വൃത്തം വരയ്ക്കണം അതിനാൽ ഒരു പോയിന്റ് 'O' ഉം മറ്റൊരു പോയിന്റ് 'A' ഉം അടയാളപ്പെടുത്തുക 'O' മുതൽ 'A' വരെ 120 മില്ലീമീറ്റർ മെക്കാനിക്കൽ മൂലകവും കണ്ടെത്തി OA ആരം ആയി ഉപയോഗിച്ച് ഒരു വൃത്തം നിർമ്മിക്കുക അതിനുശേഷം സർക്കിളിനെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക ആദ്യത്തേത് രണ്ടാമത്തേത് എട്ടാമത്തേത് എന്നിങ്ങനെ A A1 A2 എന്നിങ്ങനെ A7 എന്ന് പേരിടുക വൃത്തത്തിൽ ആദ്യം അത് കുറിക്കുക നമ്മൾ ഒരു വൃത്തത്തിനെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം അതിനുശേഷം ട്രേസിംഗ് പോയിന്റിന്റെ ട്രാവൽ നെ വിഭജിക്കുന്നു ഒരു പോയിന്റ് P ഉണ്ട് അത് സ്പൈറൽ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ദിശയിലേക്ക് OA സംഖ്യകളുള്ള 8 ഭാഗങ്ങളായി മാറുന്നു അതിനാൽ ഈ പോയിന്റ് A അകത്തേക്കോ പോയിന്റ് O ബാഹ്യ ദിശയിലേക്കോ നീങ്ങുന്നു ഒരു ഭ്രമണത്തിൽ ഈ സ്പൈറലുകൾ 360° സഞ്ചരിച്ച് OA പോയിന്റിൽ എത്തുന്നു ഇത് O ൽ നിന്ന് ആരംഭിച്ച് കോണീയ വേഗത ദിശയിൽ റേഡിയൽ ആയി പുറത്തുപോകുന്നു അത് എ യിലേക്ക് വരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റേഡിയൽ ദൂരത്തിനെ അതായത് ഈ സ്ഥാനത്തേക്ക് നീങ്ങുന്ന ലോക്കസ് പോയിന്റ്റിനെ 8 തുല്യ പോയിന്റുകളായി 1 2 3 4 എന്നിങ്ങനെ വിഭജിക്കുക ഇത് സെന്റർ O ആണ് ഇപ്പോൾ O കേന്ദ്രമായി O1 ആരമായി ഉപയോഗിച്ച് ആർക്ക് വരയ്ക്കുക ഈ പോയിന്റിനെ P1 എന്ന് നാമകരണം ചെയ്യുക ഈ പോയിന്റ് കോണീയ വേഗതയിലും റേഡിയൽ ദിശയിലും നീങ്ങുന്നു അതിനാൽ ഈ A2 രേഖയെ വിഭജിക്കുന്ന ഒരു പോയിന്റ് P2 നിർമ്മിക്കുന്നതിന് O മുതൽ 2 വരെ ഒരു വക്രം വരയ്ക്കുന്നു O മുതൽ 3 വരെ ഇവിടെ A3 രേഖയെ വിഭജിക്കാൻ പോകുന്ന ഒരു ആർക്ക് നിർമ്മിക്കുക 3 മുതൽ അത് അവിടെ വിഭജിക്കുന്നു അതുപോലെ 4 ൽ നിന്ന് A4 രേഖയെ വിഭജിക്കുന്ന ഒരു ആർക്ക് വരയ്ക്കുന്നു ആ രീതിയിൽ പോയിന്റുകൾ പി 1 പി 2 പി 3 പി 4 പി 5 പി 6 പി 7 പി 8 പോയിന്ററുകൾ അടയാളപ്പെടുത്തുക ഈ പോയിന്റുകൾ രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു മിനുസമാർന്ന കർവ് വരയ്ക്കുക അതിലൂടെ നമുക്ക് ഒരു സ്പൈറൽ നിർമ്മിക്കാൻ കഴിയും അതിനാൽ നമുക്ക് അത് ഗ്രാഫ് ഷീറ്റിൽ ചെയ്യാം ഒരു സ്കെയിൽ ഉപയോഗിക്കുക OA 120 മില്ലീമീറ്റർ ആയിരിക്കണം അതിനാൽ നമ്മൾ ഗ്രാഫ് ഷീറ്റിൽ സ്ഥിതിചെയ്യുന്ന ഒരു വൃത്തം വരയ്ക്കണം ഇത് ഷീറ്റിൽ വളരെ വലിയ വൃത്തമായിരിക്കും അത് എല്ലാ വഴികളിലൂടെയും പോകുന്നു അതിനാൽ വൃത്തത്തിന്റെ ആ ഭാഗം ആദ്യം വരയ്ക്കാം നമുക്ക് ലഭിക്കാൻ പോകുന്ന അവസാന വൃത്തം ആണിത് ഇപ്പോൾ അതിനെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അതിനാൽ മുകളിലേക്ക് പോകുന്ന രേഖകളെ നമുക്ക് ബന്ധിപ്പിക്കാം തുടർന്ന് ഈ കോണുകളെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം അതിനാൽ ഇതാണ് ഒരു ആർക്ക് അല്ലെങ്കിൽ 45° രേഖ നിർമ്മിക്കുന്നത് ഇപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഈ രേഖകൾ ചേർക്കുക അതിനാൽ നമുക്ക് 8 തുല്യ ഭാഗങ്ങൾ ലഭിക്കുന്നു ഇപ്പോൾ 120 മില്ലീമീറ്റർ നെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അതിനാൽ 15 മില്ലീമീറ്റർ എന്നത് 1208 തുല്യം ആണ് അതിനു 1 30 45 60 90 105 12 എന്നിവ ഉപയോഗിക്കണം ഇപ്പോൾ ഈ പോയിന്റിനെ O എന്നും ഈ പോയിന്റിനെ A എന്നും പേരുനൽകുക ഇപ്പോൾ ഈ മേഖലാ വിവരങ്ങൾ A1 A2 A3 A4 5 6 7 എന്ന് എഴുതുക നമുക്ക് ഈ സംഖ്യകൾക്ക് 1 2 3 4 5 6 7 8 എന്നിങ്ങനെ പേരുനൽകാം ദൂരം അളന്നിട്ടു ഒരു ആർക്ക് ഉണ്ടാക്കുക ആ പോയിന്റിനെ P1 ആയി അടയാളപ്പെടുത്തുക അതുപോലെ A2 ൽ നിന്ന് ഒരു ആർക്ക് ഉണ്ടാക്കി പോയിന്റ് P2 കണ്ടെത്തുക 3 ഇൽ നിന്നും ഒരു ആർക്ക് ഉണ്ടാക്കുക നമുക്ക് P3 ലഭിക്കും O കേന്ദ്രമായി O4 ആരമായി ഉപയോഗിച്ച് പോയിന്റ് P4 നാമകരണം ചെയ്യുക അതുപോലെ അഞ്ചാമത്തെ പോയിന്റ്റിനായി ഇവിടെ ഒരു ആർക്ക് ഉണ്ടാക്കുന്നു A6 ലെ P6 അവിടെ പോകുന്നു A7 ലെ P7 അവിടെ പോകുന്നു ഇത് ചെയ്തുകഴിഞ്ഞാൽ എല്ലായ്പ്പോഴും A യിൽ ഉള്ള P5 P6 P7 P8 എന്നിവ അടയാളപ്പെടുത്തുക ഇപ്പോൾ O മുതൽ ആരംഭിക്കുന്ന ഈ പോയിന്ററുകളെ ചേർക്കുക നമുക്ക് കൂടുതൽ ഡിവിഷനുകൾ ഉണ്ടെങ്കിൽ അത് 1 2 5 മുതൽ 6 7 8 വരെ മനോഹരമായി വരുന്നു അങ്ങനെ ഫ്രീ ഹാൻഡ് സ്കെച്ച് ഉപയോഗിച്ച് ഇത് നിർമ്മിക്കാൻ നമുക്ക് കഴിയും നമുക്ക് കൂടുതൽ ഡിവിഷനുകൾ ഉണ്ടെങ്കിൽ കർവ് വരയ്ക്കുന്നത് വളരെ സുഗമമായിരിക്കും ഇതിനെയാണ് നമ്മൾ സ്പൈറലുകൾ എന്ന് വിളിക്കുന്നത് നമുക്ക് ഇത് ഘട്ടം ഘട്ടം ആയി ആരംഭിക്കാം ഒന്നാമതായി O ആരം ഉപയോഗിച്ച് നമുക്ക് ഒരു വൃത്തം നിർമ്മിക്കണം ഈ വൃത്തത്തിനെ 8 തുല്യ ഭാഗങ്ങളായി അല്ലെങ്കിൽ 16 തുല്യ ഭാഗങ്ങളായി അല്ലെങ്കിൽ 24 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അങ്ങനെ നമുക്ക് എത്രത്തോളം സുഗമത ആവശ്യം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ O യെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ പോകുന്നു O മുതൽ 1 വരെ ആരം ഉപയോഗിച്ച് അവിടെ ഒരു കട്ട് ഉണ്ടാക്കുക O മുതൽ 2 വരെ ആരം ഉപയോഗിച്ച് A2 ലൈനിൽ ഒരു കട്ട് ഉണ്ടാക്കുക O മുതൽ 3 4 വരെ ഒരു രേഖയുമായി ബന്ധപ്പെട്ട് ആർക്കുകൾ നിർമ്മിക്കുക അങ്ങനെ ഇന്റർസെക്ഷൻ പോയിന്റുകൾക്ക് നമ്മൾ പി 1 പി 2 പി 3 എന്നിങ്ങനെ പേരിടാൻ കഴിയും സ്പൈറലുകൾ ലഭിക്കാൻ സുഗമമായ കർവ് ഉപയോഗിച്ച് എല്ലാ പോയിന്ററുകളും ചേർക്കുക അടുത്ത ചോദ്യം ഒരു സ്പൈറലിലേക്ക് ടാൻജെന്റും നോർമലും എങ്ങനെ വരയ്ക്കാം എന്നതാണ് ഉദാഹരണത്തിന് പി 3 നും പി 4 നും ഇടയിൽ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ നമ്മൾ ഒരു നോർമൽ രേഖയും ടാൻജെന്റ് രേഖയും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അവയ്ക്കിടയിൽ 90⁰ ഉണ്ടായിരിക്കണം അതിന്റെ നിർമ്മാണം നമുക്ക് നോക്കാം ഒന്നാമതായി കർവിൽ P പോയിന്റ് കണ്ടെത്തുക ഇതിന് പേര് നൽകുക O മുതൽ P വരെയുള്ള ദൂരം 55 മില്ലീമീറ്റർ ആയിരിക്കണം ഒരു കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ സ്പൈറലിനെ വിഭജിക്കാൻ പോകുന്നിടത്ത് 55 മില്ലീമീറ്റർ ആർക്ക് നിർമിക്കുക ആ പോയിന്റിനെ പി എന്ന് നാമകരണം ചെയ്യുക O മുതൽ P6 ദൂരം അളക്കുക ഒരു സ്പൈറൽ സമയ ഇടവേളകളിൽ തുല്യ ദൂരം നീങ്ങുന്നുവെന്ന് നമുക്കറിയാം തുടർച്ചയായി ദൂരം മാറുകയാണ് ആനുപാതികമായി ഇത് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നു അതിനാൽ പോയിന്റ് P6 മുതൽ P8 വരെ 90⁰ കോണിലേക്ക് പോകാൻ പോകുകയാണെങ്കിൽ സ്വാഭാവികമായും P6 മുതൽ P7 ആനുപാതിക കോണിൽ നമുക്ക് P6 മുതൽ P7 വരെ എന്തെങ്കിലും ഉണ്ടായിരിക്കും അത് pi 4 നീളം ആയിരിക്കും ഈ തന്ത്രം ഉപയോഗിച്ച് നമ്മൾ ഇത് നിർമ്മിക്കാൻ പോകുന്നു O മുതൽ P6 വരെയുള്ള ദൂരം അളക്കുക O മുതൽ A വരെ ഇതിനകം നമുക്കറിയാം അതിനാൽ നമ്മൾ OA മൈനസ് OP കുറയ്ക്കുന്നു

അതിനാൽ O മുതൽ A വരെയുള്ള ദൂരം 90 to π 2 കോണിൽ പൊതിഞ്ഞ O മുതൽ P6 വരെയുള്ള ദൂരം നമുക്ക് C വക്രത്തിന്റെ സ്ഥിരത നൽകുന്നു ഈ സ്പൈറലിനായി π 2 കോണുകൾക്ക് തുല്യമായ C വക്രത്തിന്റെ സ്ഥിരതയുണ്ട് ഇത് അങ്ങനെ തന്നെ തുടരും C π 2 π 4 കൂടാതെ ഈ അധിക കോണും ആകാം അതിനാൽ ഇത് π2 π4 ആണ് ഇത് കണക്കിലെടുത്ത് ഈ ദൂരം മറയ്ക്കുന്നതിന് ഈ അനുപാതം നമ്മൾ വരച്ച പ്രത്യേക സ്പൈറലിന് എല്ലായ്പ്പോഴും തുല്യമായിരിക്കും അതിനാൽ ഒന്നാമതായി വക്രത്തിന്റെ സി അനുപാതം കണക്കാക്കുക അത് നമ്മുടെ കാര്യത്തിൽ 19 മില്ലീമീറ്ററായി മാറും ഇപ്പോൾ കേന്ദ്രം O മുതൽ P വരെ ഒരു രേഖയിൽ ചേർക്കുക OP ലേക്ക് ഒരു ലംബ രേഖ വരയ്ക്കുക അങ്ങനെ നമ്മൾ ഈ ദൂരം 19 മില്ലീമീറ്റർ അളക്കാൻ പോകുന്നു അതിനാൽ ഒപി യും ഉം പരസ്പരം ലംബമാണ് പക്ഷേ അത് 19 മില്ലീമീറ്റർ അകലെയാണ് അത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് N കണ്ടെത്താൻ കഴിയും ഇപ്പോൾ P പോയിൻറ്റും N പോയിൻറ്റും ചേർക്കുക പോയിന്റ് പി യിലൂടെ സ്പൈറലിന് ഇത് നോർമൽ ആയിരിക്കും വൃത്തത്തിലേക്കു നോർമൽ എല്ലായ്പ്പോഴും റേഡിയൽ സ്ഥാനത്താണ് എന്നാൽ പി എൻ P N എന്നിവയിലൂടെ കടന്നുപോകുന്ന രേഖ തുടർച്ചയായി ചലിക്കുന്ന ഈ സ്പൈറലിന് നോർമൽ ആയിരിക്കും ഈ നോർമൽ പിഎൻ നമ്മൾ തിരിച്ചറിഞ്ഞാൽ 90⁰ ന് ഒരു ടാൻജെൻറ് നിർമ്മിക്കാൻ നമുക്ക് കഴിയും അതിനാൽ നമുക്ക് അത് ഷീറ്റിൽ ചെയ്യാം ഷീറ്റിൽ നമ്മൾ ഇതിനകം ഒരു സ്പൈറൽ വരച്ചു അതിനാൽ ഷീറ്റിൽ 19 മില്ലീമീറ്റർ അളക്കാം അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ ഇത് 0 ഉം ഇത് 19 ഉം ആണ് അതിനാൽ നമുക്ക് ഡ്രോയിംഗ് ഷീറ്റ് നോക്കാം ഇത് 19 മില്ലീമീറ്ററായിരിക്കും അതിനാൽ കർവിലെ O ൽ നിന്ന് നമുക്ക് ഇത് എഴുതാം വളവിന് 19 മില്ലീമീറ്റർ അകലെ ഒരു നോർമലും ടാൻജെന്റ് ഉം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന P പോയിന്റ് 55 മില്ലിമീറ്റർ അകലെ ആണ് അതിനാൽ ഒന്നാമതായി 19 മില്ലീമീറ്ററും 55 മില്ലീമീറ്ററും കണ്ടെത്തുക അതിനാൽ 55 എംഎം ഇതാണ് അതിനാൽ ഈ ദൂരം അളക്കുക O ൽ നിന്ന് എവിടെയെങ്കിലും ഒരു ആർക് ഉണ്ടാക്കുക അതിനാൽ ഈ പോയിന്റിനെ പി എന്ന് വിളിക്കുക അതിനാൽ ഈ ചെറിയ പി ഇപ്പോൾ ഓ പി OP എന്നിവയിൽ ചേർക്കുക അതിനാൽ ആ വക്രത്തിൽ 90° രേഖയിൽ സ്ഥിതിചെയ്യുന്ന വൃത്തത്തിലേക്കുള്ള നോർമൽ ആണിത് ആ രേഖ O ൽ ചേർക്കുക ആ വക്രത്തിന്റെ കോൺസ്റ്റന്റ് സി 19 മില്ലീമീറ്ററാണ് അതിനാൽ ഇവിടെ എവിടെയെങ്കിലും 19 മില്ലീമീറ്റർ ആർക്ക് ഉണ്ടാക്കുക ഈ പോയിന്റിനെ N എന്ന് വിളിക്കുക N അറിഞ്ഞുകഴിഞ്ഞാൽ P പോയിന്റും N പോയിന്റും ചേർക്കുക അത് തുടർച്ചയായ ഒരു രേഖയായിരിക്കണം എന്നാൽ ദൃശ്യപരത ആവശ്യത്തിനായി ഞാൻ ഇത് ഒരു ഡാഷ് രേഖ ആയി കാണിക്കുന്നു അതിനാൽ ഇത് പോയിന്റ് പി ലൂടെ 90⁰ ഉപയോഗിച്ച് നോർമൽ കടന്നുപോകുന്നതിലൂടെ നമുക്ക് ഒരു ടാൻജെന്റ് നിർമ്മിക്കാൻ കഴിയും ഈ രേഖകൾ ചേർക്കുക ടി ടാൻജെന്റ് ആയിരിക്കും സാധാരണയായി ഷീറ്റിൽ വരയ്ക്കുമ്പോൾ പൂർണ്ണമായ പേര് ടാൻജെന്റ് ഉം നോർമൽ ഉം ആണെന്ന് നമ്മൾ പ്രതിനിധീകരിക്കുന്നില്ല ടാൻജെന്റിനായി ടി ടി എന്നും നോർമലുകളെ പ്രതിനിധീകരിക്കുന്നതിന് എൻ എൻ എന്നും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു ഈ സ്പൈറലുകൾ നിർമിച്ച ശേഷം നമ്മൾ ഒരു ഇൻവലിയൂട്ട് നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ ഒരു സിലിണ്ടറിൽ ഒരു കയറോ ത്രെഡോ വീശുമ്പോൾ നമുക്ക് ഇൻവലിയൂട്ട് ലഭിക്കുന്നു ഉദാഹരണത്തിന് ഈ മെഷീനുകളിൽ റീൽസ് ത്രെഡിൽ ഒരു കയർ അല്ലെങ്കിൽ ത്രെഡ് വീശാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ത്രെഡിന്റെ അറ്റം ഉണ്ടാക്കുന്ന ലോക്കസിനെ ഇൻവലിയൂട്ട് പ്രതിനിധീകരിക്കുന്നു അതിനാൽ അത്തരമൊരു ഇൻവലിയൂട്ട് നമുക്ക് നിർമ്മിക്കാം അതിനാൽ ഇവിടെ നമുക്ക് പ്രത്യേക ആരത്തിലുള്ള ഒരു സിലിണ്ടർ ഉണ്ട് അത് ഈ കയറിനോ ത്രെഡിനോ മുകളിലായി ചുവന്ന നിറത്തിൽ കാണിചിരിക്കുന്നു ഉദാഹരണത്തിന് 40 മില്ലീമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിലേക്കു നമുക്ക് ഒരു ഇൻവലിയൂട്ട് വരയ്ക്കാം അതിനാൽ വൃത്തത്തിന് 40 മില്ലീമീറ്റർ വ്യാസമുണ്ട് നമ്മൾ 20 മില്ലീമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ പോയിന്റ് O ഉം ആരമായി 20 മില്ലീമീറ്ററും കണ്ടെത്താം അതിനാൽ അവസാന പോയിന്റ് ഇതാണ് ഒരു വൃത്തം വരയ്ക്കുക ആദ്യ ഘട്ടത്തിൽ 20 മില്ലീമീറ്റർ ആരം ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുക അതിനുശേഷം ഒരു രേഖ PQ വരയ്ക്കുക അത് ആ വൃത്തത്തിന്റെ ചുറ്റളവിന് തുല്യമായ നീളമുണ്ടാകും 2 π r എന്നത് π× d കു സമം ആയിരിക്കും അത് 126 മില്ലീമീറ്ററുള്ള ദൂരമായിരിക്കണം ആ വൃത്തം ഒരു അടിസ്ഥാന പോയിന്റായി കറങ്ങുകയാണെങ്കിൽ ഈ ത്രെഡ് ഇന്റെ അറ്റം ലോക്കസ് ചലിക്കുന്നതെന്തും അതിനെ ഒരു ഇൻവലിയൂട്ട് എന്ന് വിളിക്കുന്നു അതിനാൽ 126 മില്ലീമീറ്റർ ഉപയോഗിച്ച് P പോയിന്റിൽ നിന്ന് രേഖ വരയ്ക്കുക അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ താഴത്തെ പോയിന്റ് ഇതാണ് പോയിന്റ് പി നമുക്ക് ഇതിനെ 126 എംഎം എന്ന് നാമകരണം ചെയ്യാം ഈ 126 എവിടെയെങ്കിലും കണ്ടെത്തുക അതിനാൽ ഒരു രേഖ വരയ്ക്കുക ഇപ്പോൾ ഇതിനെ പിക്യു രേഖ എന്ന് വിളിക്കുന്ന ഈ മുഴുവൻ രേഖയെയും 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അതിനാൽ 12 തുല്യ ഭാഗങ്ങൾ നിർമിക്കുന്നതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെരിഞ്ഞ രേഖ വരയ്ക്കുക എന്നതാണ് 1 2 3 4 5 6 7 8 9 10 11 12 എന്നിങ്ങനെ 12 വിഭാഗങ്ങൾ നിർമ്മിക്കാൻ നമ്മുടെ കോമ്പസ് ഉപയോഗിക്കുക അതിനാൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അവസാന പോയിന്റ് ചേർക്കാൻ പോകുന്ന അതിനു സമാന്തരമായി നമ്മൾ നമ്മുടെ റോളർ സ്കെയിൽ ഉപയോഗിക്കുന്നു ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന സമാന്തര രേഖകൾ നിർമ്മിക്കുക ഈ പോയിന്റുകൾക്ക് 1 '2' 3 '4' 5 6 7 8 9 10 11 12 ഭാഗങ്ങളായി പേര് നൽകുക അതിനാൽ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 തുല്യ ഭാഗങ്ങളുണ്ട് ഇപ്പോൾ വൃത്തത്തിനെ 12 തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം അതിനാൽ 12 ഡിവിഷനുകൾ നിർമ്മിക്കാൻ നമ്മുടെ പ്രൊട്ടക്റ്റർ ഉപയോഗിക്കാം അതിനാൽ ഓരോ 30⁰ 60⁰ 90⁰ 120⁰ 150⁰ 180⁰ കളിൽ കൂടി രേഖകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയും ഈ രേഖയും അവസാന രേഖയും നമുക്ക് ചേർക്കാം ഈ പോയിന്റുകൾക്ക് 1 2 3 4 5 6 7 8 9 10 11 12 എന്നിങ്ങനെ പേരുനൽകുക ഈ കയറിന്റെ നീളം സിലിണ്ടറിനെ ചുറ്റുന്ന പോയിന്റുകളാണ് ഇവ ഇപ്പോൾ ഈ പോയിന്റുകളിൽ നിന്ന് ടാൻജെന്റുകൾ വരയ്ക്കുക ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഓരോ പോയിന്റിലും ഒരു ടാൻജെന്റ് വരയ്ക്കണം അതിനാൽ പോയിന്റ് 2 വഴി ഒരു ടാൻജെന്റ് വരച്ച് ഈ രേഖ ചേർക്കുക അതുപോലെ പോയിന്റ് 3 വഴി 90⁰ ന് ഒരു ടാൻജെന്റ് വരയ്ക്കുക അതുപോലെ 4 5 6 എന്നിവയിൽ നിന്നും ടാൻജെന്റ് വരയ്ക്കുക പോയിന്റ് 2 ന് മുകളിലൂടെ കടന്നുപോകുന്ന ഈ ടാൻജെന്റുകളെ നമുക്ക് വിപുലീകരിക്കാം ഇപ്പോൾ പോയിന്റ് Q സിലിണ്ടറിൽ ചുറ്റുന്നുണ്ടാകാം പിക്യു രേഖയെ 12 ഭാഗങ്ങളായി വിഭജിച്ച ശേഷം വൃത്തത്തിനെ 12 ഭാഗങ്ങളായി വിഭജിക്കുക പോയിന്റ് 1 2 3 ൽ നിന്നും ഈ ടാൻജന്റുകൾ ആ വൃത്തത്തിലേക്കു വരച്ച ശേഷം നമ്മൾ പോയിന്റുകൾ പി 1 പി 2 പി 3 പി 4 തുടങ്ങിയവ കണ്ടെത്തണം 1 മുതൽ P1 വരെ ദൂരം P2 മുതൽ 1 ന് തുല്യമായിരിക്കും അതിനാൽ പി ഈ പോയിന്റും 1' ഈ പോയിന്റുമാണ് അതുപോലെ 2 മുതൽ P2 ദൂരം എല്ലായ്പ്പോഴും P മുതൽ 2' ദൂരത്തിന് തുല്യമാകുന്ന തരത്തിൽ പോയിന്റ് P2 കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ പി യിൽ നിന്ന് കോമ്പസ് ഉപയോഗിച്ച് പി മുതൽ 2 വരെ ദൂരം എടുത്ത് 2 പോയിന്റിലൂടെ കടന്നുപോകുന്ന ടാൻജെന്റ് ലൈനിനെ വിഭജിക്കാൻ ശ്രമിക്കുക അതിനാൽ പോയിന്റ് 2 ലൂടെ ടാൻജെന്റ് ആ ദിശയിലേക്ക് പോകുന്നു ഈ P2' ദൂരം ഉപയോഗിച്ച് നമുക്ക് 2 കേന്ദ്രം ആയി ഉപയോഗിച്ച് ഒരു ആർക്ക് നിർമ്മിക്കാൻ പോകുന്നു അങ്ങനെ നമുക്ക് P 2 പോയിന്റ് ലഭിക്കും നമുക്ക് അത് ഷീറ്റിൽ ചെയ്യാം ഇതിനകം തന്നെ ഈ പോയിന്റ് പി 1 നമുക്കറിയാം ഇപ്പോൾ അത് ഷീറ്റിൽ കണ്ടെത്തുക ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്കുള്ള ദൂരം പി ഉപയോഗിച്ച് ആ പോയിന്റിൽ കണ്ടെത്തുക ഇതാണ് പി 2 പോയിന്റ് അതുപോലെ പി യിൽ നിന്ന് 3' ദൂരം ഉപയോഗിക്കുകയും അവിടെ കണ്ടെത്തുകയും ചെയ്യുക ഇത് പി3 പോയിന്റായിരിക്കും അതുപോലെ ഇവിടെ നിന്ന് 4' ലേക്ക് ഒരു ആർക്ക് ഉണ്ടാക്കുക അങ്ങനെ നമുക്ക് പോയിന്റ് P4 ഉണ്ടാകും 4 മുതൽ 5 വരെ P5 ദൂരം കണ്ടെത്തുക അവിടെ നിന്ന് 6' വരെ ദൂരം P6 കണ്ടെത്തുക നമ്മൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്നു അതിനാൽ ഫ്രീഹാൻഡ് സ്കെച്ച് ഉപയോഗിച്ച് നമുക്ക് ചേർക്കാം ഈ പി1 പോയിന്റിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്നാൽ ലാളിത്യത്തിനായി നമ്മൾ ആ രേഖ വരയ്ക്കാൻ പോകുന്നു ടാൻജെന്റും നോർമലും നിർമ്മിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് ടാൻജെന്റാണ് അതിനാൽ ഇതിലൂടെ കടന്നുപോകുന്ന നോർമൽ രേഖയാണിത് ടാൻജെന്റ് എല്ലായ്പ്പോഴും നോർമലിനു ലംബമായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഹെലിക്സിനെക്കുറിച്ചും ഹെലിക്സ് എങ്ങനെ നിർമ്മിക്കാമെന്നതിനെക്കുറിച്ചും നമ്മൾ പഠിക്കും